തിരികെ സ്വാഗതം ഇത് ലെക്ച്ചർ നമ്പർ 36 ആണ് ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയവുമായി തുടരും അത് ലീനിയർ ആൾജിബ്രയാണ് ഈ ലെക്ച്ചർ സീരീസിലെ വളരെ പ്രധാനപ്പെട്ട വിഷയം ലീനിയർ സമവാക്യങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കും ലീനിയർ ആൾജിബ്രയിലെ പല ആശയങ്ങളും മനസിലാക്കാൻ ഇത് വളരെ പ്രധാനമാണ് അതിനാൽ ലീനിയർ സമവാക്യങ്ങളുടെ സിസ്റ്റത്തിന്റെ അടിസ്ഥാന ആമുഖത്തോടെ നമ്മൾ ആരംഭിക്കും സിസ്റ്റത്തിന്റെ ആമുഖവും ലീനിയർ സമവാക്യങ്ങളുടെ സൊല്യൂഷനും അവയുടെ ജ്യോമെട്രിക് ഇന്റെർപ്രെറ്റേഷനും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും അതിനാൽ ഇവിടെ ലീനിയർ സമവാക്യങ്ങളുടെ സിസ്റ്റം ഇത് സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയ ഒരു ജെനറൽ സിസ്റ്റം ആണ് ഇവടെ ഇവിടെ ആദ്യത്തെ സമവാക്യം ആണ് ഇതിൽ എന്നിവ കോയിഫിഷ്യന്റ്കൾ ആണ് അവ റിയൽ നമ്പറുകളും എന്നിവ അൺനോൺ വേരിയബിൾകളും ആണ് വലതുവശത്ത് വീണ്ടും ചില രേഖീയ സംഖ്യകളുമാണ് സമാനമായി നമുക്ക് രണ്ടാമത്തെ സമവാക്യം ഉണ്ട് and ഇവ യഥാക്രമം എന്നിവയുടെ കോയിഫിഷ്യന്റ്കൾ ആണ് വലതുവശത്ത് കൊണ്ട് സൂചിപ്പിക്കുന്നു അതിനാൽ ഇവിടെ നമുക്ക് എന്ന mth സമവാക്യം ഉണ്ട് അതിനാൽ m സമവാക്യങ്ങളും n അൺനോണുകളും നമ്മൾ പരിഗണിച്ചു അതിനാൽ ഇവിടെ നമുക്ക് ഉം ഉം ഉണ്ട് ഇവ എന്നിവയുടെ കോയിഫിഷ്യന്റ്കളും വലതുവശത്ത് ഉം ആണ് അതിനാൽ നമുക്ക് 1 2 എന്നിങ്ങനെ m സമവാക്യങ്ങൾ ഉണ്ട് എന്നിവയെല്ലാം അൺനോണുകളും മാട്രിക്സ് രൂപത്തിൽ നമുക്ക് ഈ സമവാക്യങ്ങൾ ഇനിപ്പറയുന്ന രീതിയിൽ എഴുതാം

സമവാക്യങ്ങളുടെ ഒരു സിസ്റ്റം കൺസിസ്റ്റന്റ് ആവുന്നതിനുള്ള നിർവ്വചനം നമ്മളിവിടെ ഉപയോഗിക്കുന്നു കുറഞ്ഞത് ഒരു സൊല്യൂഷൻ എങ്കിലും ഉണ്ടെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് ഒരു സൊലൂഷനും ഇല്ല എങ്കിൽ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ് സൊല്യൂഷനുകൾക്ക് നിരവധി സാധ്യതകളുണ്ടെന്ന് ഇന്നത്തെ ലെക്ച്ചറിൽ നമ്മൾ നിരീക്ഷിക്കും ഒന്നാമത്തേത് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷനുമില്ല രണ്ടാമത്തേത് അതിന് ഒരു സൊല്യൂഷനുണ്ട് അത് unique ആണ് മൂന്നാമത്തേത് ഇതിന് അനന്തമായ നിരവധി പരിഹാരങ്ങളുണ്ട് ലീനിയർ സമവാക്യങ്ങളുടെ സിസ്റ്റത്തിനുള്ള മൂന്ന് സാധ്യതകളാണിവ നമ്മൾ അവയുടെ വ്യാഖ്യാനത്തിനായി നോക്കും അതിനാൽ വീണ്ടും ഈ മാട്രിക്സ് ഫോമിലേക്ക് മടങ്ങുക ഇത് മനസിലാക്കാൻ എളുപ്പമാണ് നമ്മൾക്ക് ഈ മാട്രിക്സ് Aയും ഈ x ഉം ഉണ്ട് അതിനാൽ നിങ്ങൾ ഈ A യും x ഉം ഗുണിച്ചാൽ നമുക്ക് മറ്റൊരു വെക്റ്റർ ലഭിക്കും അതിന്റെ ആദ്യ ഘടകം 1 എന്ന സമവാക്യത്തിന്റെ ഇടത് വശമായിരിക്കും ഈ A x എന്നിവയുടെ ഗുണനം ചെയ്യുമ്പോൾ ആ വെക്റ്ററിന്റെ രണ്ടാമത്തെ ഘടകം രണ്ടാമത്തെ സമവാക്യത്തിന്റെ ഇടത് വശമായിരിക്കും നമുക്ക് ഇവിടെ വലതുവശത്തുള്ള വെക്റ്റർ b ഉണ്ട് ഇവയുടെ ഘടകങ്ങൾ ഈ എന്നിവയാണ് അതിനാൽ ഓരോ ഘടകത്തെയും താരതമ്യം ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് ഈ സമവാക്യങ്ങളിലേക്ക് മടങ്ങാം അതിനാൽ എന്നെഴുതുന്ന ഈ സിസ്റ്റം ഇവിടെ നൽകിയിരിക്കുന്ന സമവാക്യങ്ങൾക്ക് തുല്യമാണ് ഇവിടെ നമുക്ക് m സമവാക്യങ്ങളും n അൺനോൺസും ഉണ്ട് അതിനുശേഷം നമുക്ക് ഒരു ലളിതമായ ഉദാഹരണം എടുക്കാം നമുക്ക് ഈ x 2𝑦 4 എന്ന ഒരു സമവാക്യം ഉണ്ട് അതിനുശേഷം നമുക്ക് x y 1 എന്ന് നൽകിയ ഒരു സമവാക്യം കൂടി ഉണ്ട് ഈ രണ്ട് സമവാക്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ജ്യോമെട്രിക്കൽ ഇന്റെർപ്രെറ്റേഷൻ വളരെ എളുപ്പമായിരിക്കും തുടർന്ന് നമുക്ക് ഈ ആശയം കൂടുതൽ വേരിയബിളുകൾക്ക് സാമാന്യവൽക്കരിക്കാനാകും നമുക്ക് ഈ സമവാക്യത്തെ നമ്പർ 1 എന്ന് വിളിക്കാം ഇത് ഒരു ലൈനിന്റെ സമവാക്യം ആയതിനാൽ നമ്മൾ ഇതിനെ L1 എന്ന് വിളിക്കുന്നു ഇവിടെ ഇത് L2 ആണ് x y 1 നൽകിയ രണ്ടാമത്തെ സമവാക്യത്തെ നമ്പർ L2 എന്ന് വിളിക്കുന്നു ഈ കേസിൽ x y എന്നീ രണ്ട് വേരിയബിളുകൾ മാത്രം പരിഗണിക്കുമ്പോൾ ഈ സിസ്റ്റത്തിന്റെ സമവാക്യങ്ങൾ ഒന്നുമല്ല മറിച്ച് ലൈനുകളുടെ സമവാക്യങ്ങളാണ് അതിനാൽ നമുക്ക് സിസ്റ്റം മാട്രിക്സ് രൂപത്തിലും എഴുതാം ഇത് കോഫിഫിഷ്യന്റ് മാട്രിക്സ് ആയിരിക്കും ഇവിടെ 1 2 എന്നിവ ആദ്യ സമവാക്യത്തിൽ നിന്ന് നമ്മൾ കോയിഫിഷെന്റുകൾ ശേഖരിക്കും 1 എന്നിവ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് കോയിഫിഷെന്റുകൾ ശേഖരിക്കും എന്നത് xy എന്നീ അൺനോൺകളുടെ വെക്റ്റർ അതിനാൽ ഈ സമവാക്യങ്ങളെ മാട്രിക്സ് വെക്ടറുകളുടെ രൂപത്തിൽ എഴുതാം ഇപ്പോൾ ഈ സമവാക്യങ്ങളുടെ ഇന്റെർപ്രെറ്റേഷനും അടിസ്ഥാനപരമായി സൊലൂഷൻഉംനമ്മൾ തിരയുന്നു അതിനാൽ ഇവിടെ x 2y 4 എന്നത് ആദ്യ സമവാക്യമാണ് അതിനാൽ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇത് എളുപ്പത്തിൽ പ്ലോട്ട് ചെയ്യാം x0 ആയിരിക്കുമ്പോൾ y2 ആണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ പോയിന്റ് 02 ആണ് തുടർന്ന് y0 ആയിരിക്കുമ്പോൾ നമുക്ക് x4 ആണ് ഇത് പോയിന്റ് 4 0 ആണ് അതിനാൽ ഇതാണ് സമവാക്യ നമ്പർ 1 തുടർന്ന് നമുക്ക് സമവാക്യ നമ്പർ 2 ഉം ഈ x y 1 ഉം ഉണ്ട് അത് ഈ ചുവന്ന വരയാണ് നൽകുന്നത് അതിനാൽ ഇവിടെ x0 ആയിരിക്കുമ്പോൾ y 1 ആണ് ഇതാണ് പോയിന്റ് 10 അതിനുശേഷം നമുക്ക് മറ്റൊരു പോയിന്റ് നൽകാം ഇവിടെ y0 ആവുമ്പോൾ x1 ആണ് അതിനാൽ ഇതാണ് പോയിന്റ് 10 തുടർന്ന് x y 1 നൽകിയ ഈ ലൈൻ വരയ്ക്കാം ഇപ്പോൾ ചോദ്യം ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ അവ ഇവിടെ ഏതെല്ലാം പോയിന്റുകളിൽ ഇന്റർസെക്റ് ചെയ്യുന്നു എന്നതാണ് അതിനാൽ ഈ പോയിന്റ് നമുക്ക് കണക്കാക്കാം സമവാക്യ നമ്പർ 1 ൽ നിന്ന് സമവാക്യം നമ്പർ 2 കുറയ്ക്കുകയാണെങ്കിൽ x ഇവിടെ ക്യാൻസൽ ചെയ്യപ്പെടും തുടർന്ന് നമുക്ക് 3y 3 എന്ന് ലഭിക്കും അതിൽ നിന്ന് y1 എന്ന് ലഭിക്കുന്നു അതാണ് y കോർഡിനേറ്റ് അതിനുശേഷം നമുക്ക് ഈ y1 എന്നത് സമവാക്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കൊടുക്കാം ഉദാഹരണത്തിന് x 1 y അതിനർത്ഥം x2 അതിനാൽ ഇവിടെ ഈ രണ്ട് ലൈനുകളും തമ്മിൽ 2 1 എന്ന് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു ഇപ്പോൾ സമവാക്യങ്ങളുടെ സൊലൂഷനെക്കുറിച്ച് സംസാരിക്കുന്നു സൊലൂഷൻ എന്നാൽ രണ്ട് സമവാക്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പോയിന്റ് x y എന്നാണ് അതിനാൽ ഇവിടെ വ്യക്തമായി ഈ പോയിന്റ് ചുവന്ന വരയിലും ഈ പോയിന്റ് നീല വരയിലും സ്ഥിതിചെയ്യുന്നു അതിനാൽ സ്വാഭാവികമായും x 2 ഉം y 1 ഉം ആയ ഈ പോയിന്റ് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു അത് രണ്ട് സമവാക്യങ്ങളെയും തൃപ്തിപ്പെടുത്തണം കാരണം ഇത് രണ്ട് ലൈനുകളിൽഉം ആയാണ് നമ്മൾ കാണുന്നത് അതിനാൽ ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ x 2 y 1 എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ രണ്ട് ലൈനുകളും തമ്മിൽ കൂടിച്ചേരുന്ന ഒരേയൊരു പോയിന്റ് ഇതാണ് അഥവാ രണ്ട് ലൈനുകളിലെയും ഒരേയൊരു ജെനറൽ പോയിന്റ് ഇതാണ് അതിനാൽ ഇത് ഇപ്പോൾ സൊലൂഷൻ ആയി അതിനാൽ കൃത്യമായി ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് യൂനിക് ആയ സൊല്യൂഷൻ ലഭിച്ചു കാരണം ഈ രണ്ട് ലൈനുകളും കൃത്യമായി ഒരു പോയിൻറ്ൽ മാത്രമാണ് ഇൻറർസെക്റ്റ് ചെയ്യുന്നത് അതിനാൽ ഈ സമവാക്യ സിസ്റ്റത്തിന് മറ്റൊരു സൊലൂഷൻ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല ഇതിനെയാണ് നമ്മൾ ഒരു യൂനിക് സൊല്യൂഷന്റെ കേസ് എന്ന് വിളിക്കുന്നത് അതിനാൽ ഈ രണ്ട് ലളിതമായ സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾക്ക് യൂനിക് ആയ സൊല്യൂഷൻ ലഭിക്കുന്നു വെക്റ്ററുകളുടെ ഫോമിൽ ഇതേ സമവാക്യങ്ങളുടെ മറ്റൊരു ഇന്റെർപ്രെറ്റേഷൻ കൂടി നമ്മൾ നോക്കും ഈ രണ്ട് സമവാക്യങ്ങളും ഈ മാട്രിക്സിന്റെ രൂപത്തിൽ വെക്റ്റർ ഗുണനമായി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സമവാക്യം എഴുതുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗമുണ്ട് കാരണം ഞാൻ ഇവിടെ ഈ x 2y ഉം രണ്ടാമത്തെ സമവാക്യം x y ഉം പരിഗണിക്കുകയാണെങ്കിൽ ആദ്യത്തെതിൽ നിന്ന് x പദങ്ങളുടെ ഒരു വെക്ടറും രണ്ടാമത്തെ സമവാക്യത്തിൽ ബാക്കിയുള്ള y പദങ്ങളുടെ ഒരു വെക്ടറും ആയിട്ടുള്ള ഒരു സിസ്റ്റം എഴുതാം അതിനാൽ 2y യും പിന്നീട് ഇവിടെ y ഉം വലതുവശത്ത് 4 ഉം 1 ഉം ആണ് അല്ലെങ്കിൽ നമുക്ക് ഇത് x ഗുണിക്കണം വെക്റ്റർ 1 1 പ്ലസ് y ഗുണിക്കണം വെക്റ്റർ 2 1 വെക്റ്റർ 4 1 എന്നെഴുതാം അതിനാൽ തന്നിരിക്കുന്ന സമവാക്യ സിസ്റ്റം ഈ രൂപത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് അവിടെ വെക്റ്റർ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ കാണാം വലതുവശത്ത് വീണ്ടും ഒരു വെക്റ്റർ ഇവിടെ സ്കാലർ എന്നാൽ അർത്ഥമാക്കുന്നത് x എന്ന സംഖ്യ എന്നാണ് അതിനാൽ ഇപ്പോൾ ഇവിടെ കൃത്യമായി എഴുതിയത് സമവാക്യങ്ങളുടെ മാട്രിക്സ് രൂപമാണ് അഥവാ നമുക്ക് ഈ വെക്റ്റർ രൂപത്തിലും എഴുതാം ഇവിടെ x ഈ 1 1 എന്ന വെക്റ്ററിലേക്ക് ഗുണിക്കുന്നു y വെക്റ്റർ 2 1 നെ ഗുണിക്കുന്നു അവ രണ്ടും ചേർക്കുന്നത് 4 1 ന് തുല്യമാണ് അതിനാൽ ഇവിടെ ഈ പ്രോഡക്റ്റ് നോക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണിത് കാരണം ഈ കേസിൽ നമ്മൾക്ക് മാട്രിക്സ് വെക്റ്റർ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു ഈ x നെ ഈ ആദ്യ നിരയിലേക്ക് ഗുണിച്ചതായും y നെ ഈ രണ്ടാമത്തെ നിരയിലേക്ക് ഗുണിച്ചതായും ഈ ഫോമിൽ കാണാം ഇത് ഈ മാട്രിക്സിന്റെയും വെക്റ്ററിന്റെയും പ്രോഡക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ് വലതുവശത്ത് നമുക്ക് ഈ വെക്റ്റർ 4 1 ഉണ്ട് ഇപ്പോൾ മറ്റൊരു ഉദാഹരണത്തിലേക്ക് വരുന്നു നമുക്ക് ഇപ്പോൾ x y 1 ഉം രണ്ടാമത്തെ സമവാക്യം x y 2 ഉം ഉണ്ട് ഇത് സമവാക്യ നമ്പർ 1 ആണ് തുടർന്ന് നമുക്ക് ഇവിടെ ഒരു സമവാക്യ നമ്പർ 2 ഉണ്ട് മുമ്പത്തെപ്പോലെ ഈ രണ്ട് സമവാക്യങ്ങളും ഇപ്പോൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ആദ്യ സമവാക്യം x 0 ഉം y 1 ഉം ആണ് അതിനാൽ ഇതാണ് ഇവിടെ 1 ഉം x 0 ഉം രണ്ടാമത്തെ ലൈന് x y 2 ഉം അതിനാൽ ഇവിടെ x0 ആയിരിക്കുമ്പോൾ നമുക്ക് y 2 പോയിന്റ് ലഭിക്കുന്നു അതിനാൽ ഇതാണ് ഇവിടെ പോയിന്റ് 2 0 തുടർന്ന് നമുക്ക് സ്ലോപ് 1 ഉള്ള ഈ ലൈൻ വരക്കാം ഈ ലൈനിനും സ്ലോപ് 1 ഉണ്ട് അടിസ്ഥാനപരമായി നമ്മൾ ഇപ്പോൾ മനസിലാക്കുന്നത് ഈ രണ്ടു സമവാക്യങ്ങൾക്കും സ്ലോപ് 1 ആണെന്നും അതിനാൽ രണ്ട് സമവാക്യങ്ങളും അടിസ്ഥാനപരമായി പരസ്പരം സമാന്തരമാണ് എന്നുമാണ് അതിനാൽ ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ കേസിൽ ഇത് നിലവിലില്ല കാരണം സമവാക്യം നമ്പർ 1 സമവാക്യം നമ്പർ 2 എന്നിവ രണ്ടും കൂടിച്ചേരുന്നിടത്ത് തൃപ്തിപ്പെടുത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ജെനറൽ ആയ ഒരു പോയിന്റും ലൈനുകളിൽ ഇല്ല അതിനാൽ അവ സമാന്തര ലൈനുകൾ ആണ് ഈ സാഹചര്യത്തിൽ ഈ തന്നിരിക്കുന്ന സമവാക്യങ്ങളുടെ സൊല്യൂഷൻ നമുക്കില്ല അതിനാൽ വളരെ ലളിതമായ ഈ ഉദാഹരണത്തിന്റെ സഹായത്തോടെ തന്നെ ഈ സമവാക്യ സിസ്റ്റത്തിന് സൊല്യൂഷൻ നമുക്കില്ലെന്ന് ജ്യോമെട്രിക്കൽ ഇന്റെർപ്രെറ്റേഷൻ പറയുന്നു നമുക്ക് സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് കാണണമെങ്കിൽ ആദ്യത്തെ സമവാക്യം x y 1 ആണ് ഞാൻ ഇവിടെ സമവാക്യം നമ്പർ 2 നെ 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് x y 2 ലഭിക്കും അതിനാൽ നമുക്ക് ഈ രണ്ട് സമവാക്യങ്ങളുണ്ട് x y 1 x y 2 ഇവ സാധ്യമല്ല കാരണം സമവാക്യം നമ്പർ 1 ൽ x y1 അഥവാ x y എന്നിവയുടെ വ്യത്യാസം 1 ആയിരിക്കുമെന്ന് നമ്മൾ പറയുന്നു രണ്ടാമത്തെ സമവാക്യത്തിൽ x y 2 അഥവാ x y എന്നിവയുടെ വ്യത്യാസം 2 ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നു അതിനാൽ രണ്ട് സമവാക്യങ്ങളും തൃപ്തിപ്പെടുത്തുന്ന ഒരു പോയിന്റ് ലഭിക്കാൻ ഇത് സാധ്യമല്ല കൂടാതെ ജ്യോമെട്രിക്കൽ ഇന്റെർപ്രെറ്റേഷനും ഈ രണ്ട് ലൈനുകളും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ലെന്നും അതിനാൽ തന്നെ ഈ സമവാക്യ സിസ്റ്റത്തിന് സൊലൂഷൻ കാണാൻ കഴിയില്ലെന്നും പറയുന്നു ഈ ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുന്നില്ല അതിനാൽ ഇതിന് ഒരു സൊലൂഷനും ഇല്ല അതിനാൽ ഇപ്പോൾ വെക്റ്ററുകളുടെ ഇന്റെർപ്രെറ്റേഷൻ എന്ന് വിളിക്കുന്ന അടുത്ത ഇന്റെർപ്രെറ്റേഷൻലേക്ക് വരുന്നു അതിനാൽ ഈ സമവാക്യത്തെയോ സമവാക്യ വ്യവസ്ഥയെയോ നമുക്ക് വീണ്ടും വെക്റ്റർ രൂപത്തിൽ മാറ്റിയെഴുതാം അതിനാൽ x വെക്റ്റർ 1 1 മായും y 11 മായും ഗുണിച്ചാൽ വലതുവശത്തെ വെക്റ്റർ 1 2 ആയിരിക്കും അതിനാൽ മുമ്പത്തെ കേസിന് സമാനമായി നമുക്ക് ഈ വെക്റ്റർ 1 1 വരയ്ക്കാം ഇതാണ് വെക്റ്റർ 1 1 പിന്നെ ഇവിടെ മറ്റൊരു വെക്റ്റർ 1 1 ഉം ഉണ്ട് അതിനാൽ ഈ രണ്ട് വെക്റ്ററുകളും മൂന്നാമത്തെ വെക്റ്റർ 1 1 ഉം ആണ് അതിനാൽ ഈ വെക്റ്റർ ലേക്ക് കുറച്ച് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തു നമുക്ക് ചേർക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം തുടർന്ന് നമുക്ക് ഈ വെക്റ്റർ 1 1 ലേക്ക് കുറച്ച് സംഖ്യകളെ ഗുണിക്കാം ഈ വെക്റ്റർ 1 2 ലഭിക്കുന്നതിന് കുറച്ച് സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു നമുക്ക് ഇവ രണ്ടും ചേർക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം ഇത് സാധ്യമല്ലെന്ന് ഇവിടെ വ്യക്തമായി കാണാം കാരണം ഈ രണ്ട് വെക്റ്ററുകളും സമാന്തരമാണ് അതിനാൽ ഈ രണ്ട് സമാന്തര വെക്റ്ററുകളിൽ നിന്ന് നമുക്ക് 1 2 എന്നിവ അല്ലാതെ എന്തും നേടാനാകും പക്ഷേ നമുക്ക് ഇവിടെ 1 2 നേടാനാവില്ല കാരണം ഇത് ഈ രണ്ട് വെക്റ്ററുകൾക്ക് സമാന്തരമല്ല മാത്രമല്ല തീർച്ചയായും ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കുന്ന ഈ രണ്ട് വെക്റ്ററുകളുടെയും ഏതെങ്കിലും കോമ്പിനേഷനോടും സമാന്തരമല്ല പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ മികച്ച നിർവചനം നമ്മൾ കൊണ്ടുവരും അതിനാൽ ഇവിടെ ഈ രണ്ട് വെക്റ്ററുകളുടെയും ഏതെങ്കിലും ലീനിയർ കോമ്പിനേഷൻ നമുക്ക് 2 1 എന്ന വെക്റ്റർ നൽകില്ല അതിനാൽ ഇത് സൊലൂഷൻ ഇല്ല എന്ന കേസാണ് അതിനാൽ ഈ കോളം 1 ഈ കോളം 2 എന്നിവയുടെ ഏതെങ്കിലും ലീനിയർ കോമ്പിനേഷനിലൂടെ ഈ വെക്റ്റർ 1 2 നിർമ്മിക്കാൻ കഴിയില്ല അതിനാൽ ഇത് ഒരു സൊലൂഷൻ ഇല്ല എന്ന കേസാണ് അടുത്തതും അവസാനത്തേതുമായ കേസിലേക്ക് വരുന്നു x y 2 x y 2 എന്നിങ്ങനെ ഉള്ള സിസ്റ്റം നമ്മൾ പരിഗണിക്കുന്നു ജ്യോമെട്രിക്കൽ ഇന്റെർപ്രെറ്റേഷനായി നോക്കിയാൽ നമുക്ക് ഈ രണ്ട് ലൈനുകളും പ്ലോട്ട് ചെയ്യേണ്ടതുണ്ട് ഈ നീല വരയിലൂടെ നൽകുന്നത് ആദ്യത്തെ സമവാക്യം x y 2 ഈ x y 2 വരച്ചാൽ വീണ്ടും നമുക്ക് അതേ ലൈൻ ആണ് ലഭിക്കുന്നത് കാരണം ഇത് അതേ സമവാക്യമാണ് ഇവിടെ നിങ്ങൾ രണ്ടാമത്തെ സമവാക്യത്തിലേക്ക് 1 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് സമാന സമവാക്യം ലഭിക്കും അതിനാൽ അടിസ്ഥാനപരമായി ഇവ രണ്ട് വ്യത്യസ്ത സമവാക്യങ്ങളല്ല നമുക്ക് ഉള്ള ഒരേയൊരു സമവാക്യമാണിത് അതിനാൽ ഇവിടെ ഈ വര വരുന്നത് ചുവന്ന വര ഇവിടെ നീല വരയ്ക്ക് മുകളിലാണ് അതിനാൽ ഇവ രണ്ടും ഒരേ വരികളാണെന്നും ഇപ്പോൾ സ്വാഭാവികമായും ഈ വരിയിൽ നാം എടുക്കുന്ന ഏത് പോയിന്റും രണ്ട് സമവാക്യങ്ങളെയും തൃപ്തിപ്പെടുത്തും അതിനാൽ തന്നിരിക്കുന്ന സമവാക്യ സിസ്റ്റത്തിന് സൊലൂഷൻആയി അനന്തമായ നിരവധി സാധ്യതകൾ ഇവിടെയുണ്ട് കാരണം ഈ രണ്ട് സമവാക്യങ്ങളും നൽകുമ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും ഒരേ സമവാക്യമാണെന്ന് കാണാൻ എളുപ്പമായിരുന്നു പക്ഷേ നമുക്ക് കൂടുതൽ സമവാക്യങ്ങൾ ഉള്ളപ്പോൾ ഇത് എല്ലായ്പ്പോഴും അങ്ങനെയല്ല ഏത് സമവാക്യമാണ് മറ്റുള്ളവയുടെ കോമ്പിനേഷൻ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഈ കേസുകളെല്ലാം നമ്മൾ പിന്നീട് കൈകാര്യം ചെയ്യും എന്നാൽ ഇവിടെ വളരെ ലളിതമായ ഈ കേസിൽ നമുക്ക് ഇത് ജ്യോമെട്രിക്കലായും കാണാൻ കഴിയും ഈ സാഹചര്യത്തിൽ ലൈനിലെ ഏത് പോയിന്റും തന്നിരിക്കുന്ന സമവാക്യ സിസ്റ്റത്തിൻറെ സൊലൂഷൻ ആണ് അതിനാൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് അനന്തമായ നിരവധി സൊലൂഷന്കളുടെ കേസ് എന്നാണ് അതിനാൽ സൊലൂഷൻറെ ഈ 3 സാധ്യതകൾ നാം കണ്ടു ഒരു കേയ്സിൽ നമുക്ക് യൂനിക് ആയ സൊലൂഷൻ ഉണ്ട് മറ്റൊന്നിൽ നമുക്ക് ഇവിടെ സൊലൂഷന് ഇല്ല മറ്റൊന്നിൽ അനന്തമായ നിരവധി സൊലൂഷൻഉകൾ ഉണ്ട് അതിനാൽ ഈ കേസിനായി വെക്റ്റർ ഇന്റെർപ്രെറ്റേഷൻ നോക്കാം അതിനാൽ നമ്മൾക്ക് ഈ രണ്ട് സമവാക്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് വെക്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ എഴുതാം x നെ 1 1 കൊണ്ട് ഗുണിക്കൂന്നു y നെ 1 1 എന്ന മറ്റൊരു വെക്റ്റർ കൊണ്ടും ഗുണിച്ചാൽ പിന്നെ വലതുവശ വലതുവശത്ത് 2 2 വെക്റ്ററുഉം കിട്ടുന്നു ഈ വെക്ടറുകൾ വീണ്ടും ഇവിടെ പ്ലോട്ട് ചെയ്താൽ 1 1 പിന്നെ നമുക്ക് 1 1ഉം മറ്റൊന്ന് 2 2 ഉം ആണ് അതിനാൽ ഈ വെക്റ്റർ 2 2 നമുക്ക് ഈ വെക്റ്ററുകളിലൊന്നിലൂടെയോ അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷനുകളിലൂടെയോ നമുക്ക് ലഭിക്കുമെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായി കാണാം ഈ വെക്റ്റർ 2 2 ലഭിക്കുന്നതിന് ഈ രണ്ട് വെക്റ്ററുകളുടെയും ഈ ലീനിയർ കോമ്പിനേഷൻ അനന്തമായ നിരവധി സാധ്യതകളുണ്ട് കാരണം ഇത് തന്നിരിക്കുന്ന വെക്ടറുകൾക്ക് സമാന്തരമാണ് കൂടാതെ ഈ രണ്ട് വെക്റ്ററുകളെയും സംയോജിപ്പിച്ച് ഈ വെക്റ്റർ 2 2 എന്നിവ നേടുന്നതിന് ഇപ്പോൾ അനന്തമായ സാധ്യതകളുണ്ട് അതിനാൽ വെക്റ്റർ വ്യാഖ്യാനത്തിൽ നിന്നും അത്തരം സന്ദർഭങ്ങളിൽ അനന്തമായ നിരവധി പരിഹാരങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ കൺക്ലൂഷനിലേക്ക് വരുന്നു നമ്മൾ എന്താണ് കണ്ടത് ലീനിയർ സമവാക്യങ്ങളുടെ സിസ്റ്റത്തിനായുള്ള 3 കേസുകൾ സിസ്റ്റത്തിന് ഒരു യൂണിക് സൊലൂഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു നമ്മൾ പരിഗണിച്ച ഈ രണ്ട് സമവാക്യങ്ങളുടെ കാര്യത്തിലും അല്ലെങ്കിൽ 2 അൺനോൺസ്ൻറെ കേസുകളിലും അവ ഒരു ഘട്ടത്തിൽ കൃത്യമായി ഒരു പോയിൻറ്ൽ ഇൻറർസെക്റ്റ് ചെയ്യുന്നു എന്ന്നമ്മൾ കണ്ടു മൂന്ന് വേരിയബിളുകൾ ഉള്ളപ്പോഴും യൂണിക് സൊലൂഷൻ എന്ന് വിളിക്കുന്നതിനെ നമുക്ക് ഇന്റെർപ്രെറ്റ് ചെയ്യാം അതിനാൽ ഈ സാഹചര്യത്തിൽ ഒരു ലൈനിന് പകരം നമുക്ക് ഒരു പ്ലെയിൻ ഉണ്ടാകും അതിനാൽ ഇപ്പോൾ മൂന്ന് പ്ലെയിനുകൾ ഉണ്ട് അവ ഒരു ഘട്ടത്തിൽ കൃത്യമായി ഒരു പോയിൻറ്ൽ ഇൻറർസെക്റ്റ് ചെയ്യുന്നു അതാണ് ആ സിസ്റ്റത്തിന്റെ സവിശേഷമായ സൊല്യൂഷൻ ലൈനുകൾ സമാന്തരമാണെങ്കിൽ അവ ഒരിക്കലും ഇൻറർസെക്റ്റ് ചെയ്യുന്നില്ലെന്നും നമ്മൾ കണ്ടു മൂന്ന് വേരിയബിളുകളുടെ കാര്യത്തിലും നമുക്ക് ഇത് ഇന്റെർപ്രെറ്റ് ചെയ്യാൻ കഴിയും അവിടെ സമാന്തര പ്ലെയിനുകളാണെന്നും നമ്മൾ കണ്ടു അതിനാൽ തന്നിരിക്കുന്ന സിസ്റ്റത്തിന് നമ്മൾക്ക് ഒരു പരിഹാരവുമില്ല അതേസമയം മൂന്നാമത്തെ കേസ് രണ്ട് ലൈനുകളും അടിസ്ഥാനപരമായി തുല്യമാണെന്നും തുടർന്ന് ലൈനിലെ ഏത് പോയിന്റും സമവാക്യ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആണെന്ന്നമ്മൾ കണ്ടു യൂണിക് സൊല്യൂഷന്റെ കാര്യം നമ്മൾ കണ്ടു അനന്തമായ നിരവധി പരിഹാരങ്ങളുടെ കാര്യം നമ്മൾ കണ്ടു പരിഹാരമില്ലാത്ത കേസ് നമ്മൾ കണ്ടു കൂടാതെ n അൺനോണുകൾക്കായി m സമവാക്യങ്ങളുടെ ഒരു വലിയ സിസ്റ്റം പരിഗണിക്കുമ്പോൾ ലീനിയർ സമവാക്യങ്ങളുടെ ഒരു സിസ്റ്റത്തിന് സംഭവിക്കാവുന്ന സാധ്യതകളാണ് ഇവയെല്ലാം രണ്ട് അൺനോൺസ് മാത്രം പരിഗണിക്കുന്ന വളരെ ലളിതമായ ഉദാഹരണങ്ങളുടെ സഹായത്തോടെയാണ് നമ്മൾ ഇവിടെ കണ്ടത് അതിനാൽ അടുത്ത ലെക്ച്ചറിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും നമുക്ക് ജ്യോമെട്രിക് ഇന്റെർപ്രെറ്റേഷനും വെക്റ്റർ ഇന്റെർപ്രെറ്റേഷനുമായി ഇവിടെ പരിഗണിച്ച 2x2 മാത്രമല്ലാത്ത ഒരു വലിയ സംവിധാനം ഉള്ളപ്പോൾ സൊല്യൂഷൻ കണ്ടെത്താനുള്ള സൊല്യൂഷൻ ടെക്നിക്കുകൾ നമ്മൾ ചർച്ച ചെയ്യും ഈ ലെക്ച്ചറുകൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകളാണ് ഇവ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി